ഹീപ്സിനെ കുറിച്ചുള്ള നമ്മുടെ ചർച്ച പൂർത്തിയാക്കുന്നതിന് ഹീപ്സും ഡിജ്സ്ക്സ്ട്രയുടെ അൽഗോരിതം എങ്ങനെ ഉപയോഗിക്കാമെന്നും വ്യത്യസ്ത തരം തരംതിരിക്കലിനായി ഹീപ്സിനെ എങ്ങനെ ഉപയോഗിക്കാമെന്നും നമ്മൾക്കു കാണും പ്രൈയോരിറ്റി ക്യൂകളുടെ ഒരു ട്രീ ഇമ്പ്ലിമെൻസ്റ്റേഷൻ ആണ് ഹീപ്സ് എന്നു ഓർക്കുക അതിൽ സങ്കീർണ്ണത ലോഗ് N ചേർക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് N ടൈം ക്രമത്തിൽ ഒരു ഹീപ്സ് താഴെയായി നിർമ്മിക്കാനും നിങ്ങൾക്ക് അതിനെ ഒരു ട്രീയായി പ്രതിനിധീകരിക്കാനും കഴിയും നിങ്ങൾക്ക് ഒരു ട്രീയെ ഒരു നിരയിൽ പ്രതിനിധീകരിക്കാൻ കഴിയും അതിനാൽ നിങ്ങൾക്ക് അത് വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയും നമുക്ക് ഡിജ്സ്ക്സ്ട്രയുടെ അൽഗോരിതംDijkstras algorithm നോക്കാം ഡിജ്സ്ക്സ്ട്രയുടെ അൽഗോരിതം ഞങ്ങൾ പ്രാരംഭ വെർട്ടക്സ്സിൽ നിന്ന് ആരംഭിക്കുകയും ഈ വെർട്ടിസ്സ് കത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അതിനാൽ അവയുടെ ദൂരത്തിനനുസരിച്ച് ഞങ്ങൾ വെർട്ടിസ്സ് സന്ദർശിക്കുന്നത് തുടർന്നു അതിനാൽ തുടക്കത്തിൽ ഞങ്ങൾ എല്ലാത്തിനും അനന്തമായി ദൂരം സജ്ജമാക്കി ആരംഭ വെർട്ടക്സ്സിലേക്കുള്ള ദൂരം 0 ആയി സജ്ജീകരിക്കുന്നതുപോലെ ഞങ്ങൾ ആരംഭ പോയിന്റ് ഉപയോഗിക്കുന്നു തുടർന്ന് ഞങ്ങൾ സന്ദർശിക്കാത്ത ഏറ്റവും ചെറിയ വെർട്ടിക്സ് വെർട്ടക്സ് അത് സന്ദർശിക്കാൻ സജ്ജമാക്കി അതിന്റെ ഓരോ അയൽവാസികളുടെയും ദൂരം വീണ്ടും കണക്കുകൂട്ടുന്നു അതിനാൽ തടയണകൾ ശരിക്കും ലൂപ്പിന്റെ ഈ ഭാഗത്തായിരുന്നു മിനിമം ദൂരമുള്ള j ആദ്യം കണ്ടെത്തുന്നത് തടസമാണ് അതിനാൽ നിഷ്കളങ്കമായ നിർവ്വഹണം നമുക്ക് n ടൈം എടുക്കും കാരണം ഞങ്ങൾ ദൂരത്തിന്റെ പ്രത്യേക ക്രമത്തിൽ ഇല്ലാത്തതും അവയിൽ ഏറ്റവും കുറഞ്ഞതും ശരിയുമായതും കാണപ്പെടാത്ത എല്ലാ വെർട്ടിസ്സ്സും സ്കാൻ ചെയ്യേണ്ടിവരും അതിനാൽ ഞങ്ങൾ ഇതുവരെ ചർച്ച ചെയ്തതിൽ നിന്ന് വ്യക്തമായി തോന്നുന്നത് ദൂരം ഒരു ഹീപ്സ് ആയി നിലനിർത്തുകയും ഡിലീറ്റ് മാക്സ് അല്ലെങ്കിൽ ഡിലീറ്റ് മിൻ ഈ സാഹചര്യത്തിൽ ചെയ്യുക എന്നതാണ് കാരണം ഞങ്ങൾക്ക് ഒരു മിൻ ഹീപ്സ് വേണം അതിനാൽ ഡിലീറ്റ് മിൻ കുറയ്ക്കുക പക്ഷേ ഞങ്ങൾ ദൂരം വീണ്ടും കണക്കുകൂട്ടേണ്ടതുണ്ട് ദൂരം വീണ്ടും കണക്കുകൂട്ടുക എന്നതിന്റെ അർത്ഥം j യുടെ ഓരോ നെയ്ബർ K ഉം പരിശോധിക്കുക എന്നാണ് അതിനാൽ നമുക്ക് അയൽക്കാരെ കാര്യക്ഷമമായി നോക്കാനാകുമെന്ന് ഉറപ്പുവരുത്താൻ തൊട്ടടുത്തുള്ള ലിസ്റ്റുകൾ ഉപയോഗിക്കാൻ കഴിയും അങ്ങനെ അടുത്തുള്ള ഒരു മാട്രിക്സിൽ ഒരു വരി മുഴുവൻ ആസൂത്രണം ചെയ്ത് സമയം പാഴാക്കരുത് എന്നാൽ ഇവിടെയുള്ള തടസ്സം നമ്മൾ ദൂരം അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് അതായത് നമ്മൾ ഹീപ്സിൽ പ്രവേശിക്കുകയും മൂല്യങ്ങൾ മാറ്റുകയും വേണം അതിനാൽ ഞങ്ങൾ ഹീപ്സ് മൂല്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ ഹീപ്സ് മൂല്യങ്ങൾ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാമെന്ന് ഞങ്ങൾ ശരിക്കും കണ്ടിട്ടില്ല ഇന്സേര്ട്ട് ഉം ഡിലീറ്റ് മിൻ ഡിലീറ്റ് മാക്സും മാത്രമാണ് ഞങ്ങൾ കണ്ടത് അതിനാൽ അപ്ഡേറ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു ഈ മൂല്യം 12 ൽ നിന്ന് 44 ആയി മാറ്റാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ 12 10 11 എന്നിവയേക്കാൾ വലുതാണെങ്കിൽ ഏത് വലിയ മൂല്യവും 10 11 എന്നിവയേക്കാൾ വലുതായിരിക്കും അതിനാൽ ഞങ്ങൾ അത് 44 ആക്കും ഞങ്ങൾ താഴേക്ക് നോക്കേണ്ടതില്ല പക്ഷേ ഞങ്ങൾ അതിനെ വലുതാക്കുന്നതിനാൽ അതിനെക്കാൾ വലുതായിത്തീരും അതിന്റെ പേരെന്റെകാലും വാസ്തവത്തിൽ നമ്മൾ 24 12 എന്നിവയെ 44 കൊണ്ട് മാറ്റിസ്ഥാപിക്കുകയാണെങ്കിൽ മുകളിൽ ഹീപ്സ് ലംഘിച്ചതായി നമുക്ക് കാണാം അതിനാൽ ഇപ്പോൾ നമ്മൾ ഇത് ഇന്സേര്ട് ചെയ്തപോലെ തന്നെ കൈകാര്യം ചെയ്യുന്നു അതിനാൽ ഈ ലംഘനം നമ്മൾ മുകളിലേക്ക് പരിഹരിക്കുന്നു ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ 44 ലഭിച്ചു ഇപ്പോൾ അത് അതിന്റെ പാറെന്റുമായി എന്തെങ്കിലും ലംഘിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് അത് ചെയ്യുന്നു അത് കൈമാറുക ഒടുവിൽ അത് അവസാനിക്കുമ്പോൾ ഒന്നുകിൽ കൂടുതൽ ലംഘനങ്ങൾ ഉണ്ടാകാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് റൂട്ട് എത്തുമ്പോഴോ നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാനാകില്ല അതിനാൽ ഒരു മൂല്യം വർദ്ധിപ്പിക്കുമ്പോൾ നിങ്ങൾ ലംഘനങ്ങൾ മുകളിലേക്ക് പരിഹരിക്കുന്നു കാരണം നിങ്ങൾ ഒരു മൂല്യം വർദ്ധിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ചിൽഡ്രനേക്കാളും ചെറുതാകാൻ കഴിയില്ല പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ പാരന്റ്നെക്കാളും വലുതായിത്തീരാനാകും മൂല്യം കുറയ്ക്കുക എന്നതാണ് മറ്റൊരു തരം മാറ്റം അതിനാൽ ഞാൻ ഈ 33 എടുത്ത് 9 ആക്കി എന്ന് കരുതുക ഇപ്പോൾ അതേ യുക്തിയാൽ അത് 33 ആയിരുന്നു 44 ൽ കുറവായിരുന്നു 9 ഉം 44 നെക്കാൾ ചെറുതായിരിക്കും 33 ൽ താഴെയുള്ള ഏത് മൂല്യവും ലംഘനം സൃഷ്ടിക്കാൻ കഴിയില്ല അതിനാൽ ഞാൻ ഇത് 9 ആയി കുറച്ചാൽ നമ്പർ 33 നും 24 നും ഇടയിലുള്ള പ്രശ്നമാണ് ഇത് എന്റെ പുതിയ മൂല്യമാണെങ്കിൽ എനിക്ക് അതിന്റെ രണ്ട് കുട്ടികളുമായി പരിശോധിച്ച് ഏറ്റവും വലിയ ഒന്ന് എടുക്കണം ഈ സാഹചര്യത്തിൽ ഇത് 24 ആണ് എനിക്ക് ഇപ്പോൾ അതിന്റെ രണ്ട് ചിൽഡ്രനെയും പരിശോധിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഏറ്റവും വലിയ ഒന്ന് എടുക്കുക ഈ സാഹചര്യത്തിൽ അത് 11 ആണ് അതിനാൽ ഇത് ഇങ്ങനെയാണ് അതിനാൽ ഞാൻ മൂല്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയും മൂല്യം കുറയ്ക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ലംഘനങ്ങൾ താഴേക്ക് പരിഹരിക്കേണ്ടതുണ്ട് കാരണം ഒരു മൂല്യം കുറയ്ക്കുന്നതിന് അതിന്റെ പാരന്റ്നെക്കാളും വലുതാക്കാൻ കഴിയില്ല പക്ഷേ അതിന് അതിന്റെ രണ്ട് ചിൽഡ്രനിൽ ഒരാളേക്കാൾ ചെറുതാക്കാൻ കഴിയും നിങ്ങൾ ഡിജെസിക്സ്ട്രാ ന്റെ അൽഗോരിതം നോക്കുകയാണെങ്കിൽ അതിന്റെ പ്രവർത്തനരീതി നമ്മൾ ഒരു വെർട്ടക്സ് എടുത്ത് ഈ ദൂരം അപ്ഡേറ്റ് ചെയ്യുന്നതുപോലെയാണ് അതിനാൽ ചില വെർട്ടെക്സിന്റെ ദൂരം ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് അത് ഹീപ്സിൽ എവിടെയെങ്കിലും ഉണ്ട് അതിനാൽ ഞങ്ങളുടെ മുമ്പത്തെ ഉദാഹരണം കാണിക്കുന്നത് നമ്മൾ ഹീപ്സിൽ നോഡ് ഇട്ട് അതിന്റെ മൂല്യം മാറ്റുകയാണെങ്കിൽ ഹീപ്സിൽ എങ്ങനെ ക്രമീകരിക്കാമെന്ന് നമുക്കറിയാം പക്ഷേ ഹീപ്സിൽ j എവിടെയാണെന്ന് എങ്ങനെ കണ്ടെത്താം അല്ലേ അതിനാൽ j എവിടെയാണ് സ്ഥിതിചെയ്യുന്നത് അതിനാൽ ഈ അധിക വിവരങ്ങൾ വെവ്വേറെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് അതിനാൽ നോഡുകളിൽ നിന്ന് ചൂണ്ടിക്കാണിക്കുന്ന രണ്ട് പുതിയ അറേകൾ നമ്മൾ സൂക്ഷിക്കും അവ ഒന്നിൽ നിന്ന് ഹീപ്സിലേക് അവസാനിക്കുന്നു ഇത് 0 മുതൽ N വരെ മൈനസ് 1 ആണ് തിരിച്ചും ഹീപ്സിൽ നിന്ന് 0 മുതൽ N വരെ നോഡുകൾ വരെ അതിനാൽ ഈ ചിത്രത്തിൽ ഈ രണ്ട് കാര്യങ്ങളും വ്യത്യസ്ത നിറങ്ങളിൽ വരച്ചിരിക്കുന്നു അതിനാൽ ഒരു നോഡിന് എതിരായ ചുവന്ന ലേബലുകൾ വെർട്ടെക്സിനെ സൂചിപ്പിക്കുന്നു അതിനാൽ വേർട്സ് 8 ന്റെ ദൂരത്തെ 44 പ്രതിനിധീകരിക്കുന്നു കൂടാതെ നമുക്ക് ഒരു അറേ ഉണ്ടെന്ന് സൂചിപ്പിക്കാൻ നോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രാഫിലെ നോഡ് 8 ഹീപ്സിൽ വേർട്സ് 0 ആണെന്ന് പറയുന്നു അതുപോലെ ഞാൻ ഇത് നോക്കിയാൽ അത് പറയുന്നു ഈ വേർട്സ് 3 അതിനാൽ ഗ്രാഫിലെ വേർട്സ് 3 ആണ് ഹീപ്സിലെ നോഡ് 6 ആണ് നേരെമറിച്ച് ഹീപ്സിൽ ആണെങ്കിൽ ഞാൻ നോഡ് 4 ൽ ആണെങ്കിൽ അത് ലൂപ്പിനെ പ്രതിനിധീകരിക്കുന്നു അപ്പോൾ ഇത് ഏത് വേർട്സ്സുമായി യോജിക്കുന്നു അതുകൊണ്ട് ഹീപ്സിലെ നോഡ് 4 വേർട്സ് 5 നോട് യോജിക്കുന്നു അതിനാൽ ഹീപ്സിലെ നോഡിന്റെ സൂചിക നൽകിയ ഹീപ്സിൽ നിന്ന് ഗ്രാഫിലെ ഏത് നോഡുമായി യോജിക്കുന്നു അതിനാൽ ഞങ്ങൾ സജ്ജീകരിച്ച അധിക കാര്യങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സ്വാപ്പുകൾ നടത്തുമ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ ഉദാഹരണത്തിന് നമുക്ക് ഈ മുമ്പത്തെ കാര്യം ഉണ്ടെന്ന് കരുതുക ഈ 33 നെ 9 ആക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു മുമ്പത്തെ സെറ്റിൽ ഞങ്ങൾ ചെയ്ത 33 9 ആയി കുറയ്ക്കുക എന്നതായിരുന്നു നമ്മുടെ ലക്ഷ്യം ഇപ്പോൾ ഞാൻ ഇത് ചെയ്യുമ്പോൾ അതിന്റെ രണ്ട് ചൈൽഡ്റിനെയും ഹീപ്സിലേക് ഇറങ്ങുകയും ഈ 24 മാറണം എന്ന് തിരിച്ചറിയുകയും വേണം ഇപ്പോൾ 24 മാറേണ്ടതിനാൽ അത് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാമെന്നും എനിക്ക് അറിയണം അതിനാൽ ഹീപ്സിലെ നോഡ് 3 ആണ് 24 അതിനാൽ നോഡ് 3 എന്നത് വെർട്ടെക്സ് 2 ഇവിടെ വെർട്ടെക്സ് 2 ലേക്ക് പോകേണ്ടതുണ്ട് ഈ എൻട്രികൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് അതിനാൽ എനിക്ക് 6 ഉം 1 ഉം 3 ഉം 2 ഉം അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് ഞാൻ 9 ഉം 24 ഉം കൈമാറുമ്പോൾ ഞാൻ 6 ഉം 2 ഉം കൈമാറണം ട്രീ ലെ നോഡ് 1 ലും എന്റെ ഗ്രാഫിലെ വെർട്ടെക്സ് 6 ഇപ്പോൾ ട്രീ ലെ നോഡ് 3 ലും ആണ് നേരെമറിച്ച് ട്രീ ലെ നോഡ് 1 വെർട്ടെക്സ് സിലേക്കും ട്രീ ലെ നോഡ് 3 വെർട്ടെക്സ് സിലേക്കും പോയിന്റുകൾ 2 ലേക്ക് നോഡ് 3 പോയിന്റുകളിലേക്കും ഈ അപ്ഡേറ്റിന് ശേഷം അടിസ്ഥാനപരമായി ഈ രണ്ട് മൂല്യങ്ങളും മുമ്പ് ഉണ്ടായിരുന്നതിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെട്ടു അതിനാൽ ഈ തലത്തിൽ കൈമാറ്റം ചെയ്യുന്നതിനു പുറമേ ഈ സ്വാപ്പിന് ഉണ്ടായിരുന്നുവെന്നും ഞാൻ തിരിച്ചറിയണം ഇപ്പോൾ ഒരു സ്വാപ്പ് കൂടി ചെയ്യുന്നു 9 11 എന്നിവയ്ക്ക് സ്വാപ്പുകളുണ്ടായിരുന്നതിനാൽ ഇപ്പോൾ 3 6 8 9 എന്നിവയ്ക്കായി എൻട്രികൾ മാറ്റും അതുപോലെ 6 3 9 8 അതിനാൽ എൻട്രികൾ വെർട്ടെക്സ് 6 വെർട്ടെക്സ് 9 നോഡ് 3 നോഡ് 8 എന്നിവയുമായി യോജിക്കുന്നു അതിനാൽ വെർട്ടെക്സ് 6 വെർട്ടെക്സ് 9 നോഡ് 3 നോഡ് 8 ഇവ പരസ്പരം മാറ്റേണ്ടതുണ്ട് ഇത് അധിക ശ്രേണികളായി സൂക്ഷിക്കുന്നതിലൂടെ എനിക്ക് ഈ അപ്ഡേറ്റുകൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും കാരണം ഹീപ്സ് സൂചികയ്ക്കും നോഡ് സൂചികയ്ക്കും ഇടയിൽ എനിക്ക് മുന്നോട്ടും പിന്നോട്ടും പോകാനുള്ള വഴിയുണ്ട് ഞാൻ ഇത് ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് ഡിജെസിക്സ്ട്രാ ന്റെ അൽഗോരിതം ഉപയോഗിക്കാൻ കഴിയില്ല കാരണം ഡിജെസിക്സ്ട്രാ ന്റെ അൽഗോരിതം ഹീപ്സിൽ മൂല്യം അപ്ഡേറ്റുചെയ്യാൻ ആവശ്യപ്പെടും പക്ഷേ ഹീപ്സിലെ ഏത് മൂല്യമാണ് എനിക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയണം അപ്ഡേറ്റ് പരമാവധി മുകളിലേക്കോ താഴേയ്ക്കോ ഉള്ള കൃത്രിമത്വം ഉപയോഗിച്ച് പരമാവധി ചേർക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യാം പക്ഷേ യഥാർത്ഥ പ്രശ്നം അപ്ഡേറ്റ് ആരംഭിക്കുന്നത് എവിടെയാണെന്ന് തിരിച്ചറിയുക എന്നതാണ് മുമ്പ് കണ്ടതുപോലെ ഇപ്പോൾ ഈ അപ്ഡേറ്റ് ഓപ്പറേഷൻ ഉപയോഗിച്ച് നമുക്ക് ഈ ഹീപ്സ് ഉപയോഗിക്കാനും മിനിമം ടൈം വെർട്ടക്സ് ലോഗ് n ടൈം കണ്ടെത്താനും കഴിയും കൂടാതെ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ലിസ്റ്റ് ഉള്ളതിനാൽ മൊത്തത്തിൽ ബേർൺ ടൈം അപ്ഡേറ്റ് ചെയ്യുന്ന ലൂപ്പുകൾ ഓരോ അരികിലും ലോഗ് n ടൈം എടുക്കുന്നു കൂടാതെ മൊത്തം അരികുകൾ ഓർഡർ ചെയ്യുന്നു അതിനാൽ മൊത്തത്തിൽ നമുക്ക് n ലോഗ് n അപ്ഡേറ്റ് ചെയ്യുന്നതിനും മിനിമം n തവണകൾ കണ്ടെത്തുന്നതിനും ഏറ്റവും കുറഞ്ഞ m തവണ അപ്ഡേറ്റുചെയ്യുന്നതിന് m ലോഗ് n ലഭിക്കുന്നു അതിനാൽ n പ്ലസ് n ലോഗ് n പ്രിമിന്റെ അൽഗോരിതത്തിന് സമാനമായ തന്ത്രം നിങ്ങൾക്ക് ഉപയോഗിക്കാം പ്രിമിന്റെ അൽഗോരിതത്തിൽ ദൂരം എന്ന ആശയം ഒന്നുമല്ല ഞങ്ങൾ ദൂരം ശേഖരിക്കുന്നില്ല യഥാർത്ഥ അറ്റത്തിന്റെ വില ഞങ്ങൾ നോക്കുന്നു എന്നിട്ടും ഒരു ട്രീ യുമായി ഒരു നോഡിനെയും നിലവിലെ ട്രീ യെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും കുറഞ്ഞ ചിലവ് ഞങ്ങൾ ആകർഷിക്കേണ്ടതുണ്ട് തുടർന്ന് ഈ അരികിൽ ട്രീ ചേർത്തതിനുശേഷം ഈ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് അതിനാൽ ഉപയോഗിക്കുന്ന അപ്ഡേറ്റുകൾക്കൊപ്പം ഒരു മിനി ഹീപ്സ് ഉപയോഗിക്കുന്ന അതേ ആശയം അതിനാൽ പ്രൈമിന്റെ അൽഗോരിതം ലഭിക്കുന്നത് ഡിജ്സ്ക്സ്ട്രയുടെ അൽഗോരിതം പോലെ തന്നെ സങ്കീർണ്ണതയിലേക്ക് ഹീപ്സ് ഉപേക്ഷിക്കുന്നതിനുമുമ്പ് അടുക്കാൻ എങ്ങനെ ഹീപ്സ് ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം അതിനാൽ മൂല്യങ്ങളുടെ ഒരു പട്ടിക അടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമുക്ക് ആദ്യം ഒരു ഹീപ്സ് പണിയാം അതിനാൽ ഇപ്പോൾ x 1 മുതൽ xn വരെയുള്ള മൂല്യങ്ങളുടെ ഏകപക്ഷീയ ക്രമത്തിൽ ആരംഭിക്കുന്നു തുടർന്ന് ഞങ്ങൾ ഒരു ഹീപ്സ് പണിയുന്നു നമുക്ക് xi 1 xi 2 xin എന്നിവയുടെ ഏതെങ്കിലും വിധത്തിൽ പുനക്രമീകരിക്കാൻ കഴിയും എന്നാൽ ഇത് അടുക്കുന്ന രീതിയിലല്ല ഇത് അതായത് പരമാവധി ഇടതുവശത്താണെന്നും മറ്റും നമുക്കറിയാം ഇപ്പോൾ ഞാൻ അത് പരമാവധി ഇല്ലാതാക്കുന്നു ഞാൻ ഇതിനെ പുറത്താക്കി അതിനാൽ ഇത് പരമാവധി ആണെന്ന് എനിക്കറിയാം അപ്പോൾ ഇതിനുശേഷം ഇത് എന്തോ മുന്നിൽ വരും അടുത്ത ഘട്ടത്തിൽ അത് പുറത്തുവരും അപ്പോൾ എനിക്ക് രണ്ടാമത്തെ മാക്സും മറ്റും ലഭിക്കും അതിനാൽ ഡിലീറ്റ് മാക്സ് n ടൈംസ് ചെയ്താൽ വ്യക്തമായും ഓരോ ഘട്ടത്തിലും എനിക്ക് അടുത്ത പരമാവധി ലഭിക്കും അതിനാൽ അവരോഹണ ക്രമത്തിൽ ട്രീ യിൽ നിന്ന് ഘടകങ്ങൾ വേർതിരിച്ചെടുക്കുന്നു അതിനാൽ എനിക്ക് ഒരു അടുക്കിയിട്ടുള്ള ഔട്ട്പുട്ട് ലഭിക്കും എനിക്ക് റിവേഴ്സ് സെറ്റ് ചെയ്യാൻ കഴിയും എനിക്ക് ആരോഹണ ക്രമത്തിൽ തുടരാം അത് പ്രശ്നമല്ല പക്ഷേ ഞാൻ ഒരു പ്രത്യേക ക്രമത്തിൽ ഘടകങ്ങൾ വേർതിരിച്ചെടുക്കുന്നു അതിനാൽ ഇതൊരു ട്രിവിയൽ സോർട്ടിംഗ് അൽഗോരിതം ആണ് ഓരോ എക്സ്ട്രാക്ഷനും ലോഗ് n ടൈം എടുക്കുന്നു കാരണം ഇത് ഡിലീറ്റ് ടൈം മാക്സ് അല്ലെങ്കിൽ ഒരു ഡിലീറ്റ് മാക്സ് അല്ലെങ്കിൽ ഒരു ഡിലീറ്റ് മിൻ ഏത് തരം ഹീപ്സാണ് ഉപയോഗിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങൾ അത്തരം വേർതിരിച്ചെടുക്കൽ നടത്തുന്നില്ല അതിനാൽ ലോഗ് n ടൈമിൽ നിങ്ങൾക്ക് ഘടകങ്ങൾ ക്രമീകരിച്ച ക്രമത്തിൽ പുറത്തെടുക്കുകയും അവയെ ക്രമീകരിക്കാൻ നിങ്ങൾ ഓർഡർ n ടൈം മാത്രം എടുക്കുകയും ചെയ്യും അതിനാൽ മൊത്തത്തിൽ ഞങ്ങൾ ലോഗ് n സമയം ക്രമീകരിച്ചു നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ചോദിക്കാൻ കഴിയുന്ന ഒരു ചെറിയ സൂക്ഷ്മമായ കാര്യമുണ്ട് ചോദ്യം ഈ മൂല്യങ്ങൾ എവിടെ പോകുന്നു അതിനാൽ തുടക്കത്തിൽ ആദ്യ ആവർത്തനത്തിൽ എനിക്ക് എന്റെ ഹീപ്സ് ഇതുപോലെ ഉണ്ടെങ്കിൽ ഇതാണ് എന്റെ പരമാവധി അതിനാൽ ഞാൻ ഒരു പുതിയ പട്ടികയിൽ ഇടേണ്ടതുണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഈ ഘട്ടത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് ഈ മൂല്യം ഇവിടെ ചേർക്കുന്നു തുടർന്ന് ഞാൻ പ്രവർത്തനം ശരിയാക്കിയാൽ അത് ഹീപ്സ്സായ് ചുരുങ്ങും അതിനാൽ ഞാൻ റൂട്ടിലെ മൂല്യം ഇല്ലാതാക്കുമ്പോൾ അവസാനത്തെ ലീഫ് എടുക്കുകയും അതിന്റെ മൂല്യം റൂട്ടിൽ ഇടുകയും തുടർന്ന് അത് താഴേക്ക് വയ്ക്കുകയും അങ്ങനെ എല്ലാ ഹീപ്പ് പ്രോപ്പർട്ടികളും ഇതിനുശേഷം ഇപ്പോൾ എന്റെ ഹീപ്സ് ഇതുപോലെ കാണപ്പെടുന്നു കാരണം ഈ മൂല്യം ഇല്ലാതായി അതിനാൽ എന്റെ ഹീപ്സ് x മൈനസ് n മൈനസ് 1 ൽ അവസാനിക്കുന്നു എന്റെ അറേയിൽ എനിക്ക് ഒരു ഇടമുണ്ട് അത് അടുത്ത ഡിലീറ്റ് മാക്സിനായി കൂടുതൽ ഉപയോഗിക്കില്ല കാരണം അടുത്ത ഡിലീറ്റ് മാക്സിൽ n മൈനസ് 1 പ്രവർത്തനം മാത്രമേ ഉൾപ്പെടുന്നുള്ളൂ അതിനാൽ വാസ്തവത്തിൽ ഈ ഘട്ടത്തിൽ എനിക്ക് പോയി ഈ മൂല്യം ഈ സ്ഥാനത്ത് വീണ്ടും നിക്ഷേപിക്കാൻ കഴിയും അത് അത്രയല്ലെന്ന് ഉറപ്പുനൽകാം ശരിയല്ല അതിനാൽ ഇപ്പോൾ സംഭവിക്കുന്നത് എനിക്ക് പരമാവധി ഇവിടെ വരാം അപ്പോൾ എനിക്ക് അടുത്ത രണ്ടാമത്തെ മാക്സ് ഇവിടെ വരും അതിനാൽ ഞാൻ പരമാവധി ഡിലീറ്റ് ചെയ്യുന്നത് തുടരുകയാണെങ്കിൽ ഞാൻ വലത് നിന്ന് മൂല്യം ഡിസെൻഡിങ് ഓർഡറിൽ പ്രചരിപ്പിക്കും അതിനാൽ ഒടുവിൽ അത് യഥാർത്ഥത്തിൽ അസെന്റിങ് ഓർഡറിൽ അവലംബിച്ചേക്കാം അതിനാൽ ഇത് എനിക്ക് ഒരു സ്ഥല ക്രമം n log n സ്വാപ്പ് നൽകുന്നു ഒരു പുതിയ പട്ടികയിൽ ഇടുന്ന മൂല്യം ഞാൻ ഇല്ലാതാക്കുമ്പോൾ ഒരു മൂല്യം കൊണ്ട് ഹീപ് തേടി അത് ഇപ്പോൾ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ വെച്ചു കൂടാതെ അപ്പോൾ എനിക്ക് യാന്ത്രികമായി ഒരു ഔട്ട്പുട്ട് അടുക്കുന്നു അതിനാൽ വളരെ വ്യത്യസ്തമായ ഓർഡർ log n ഹ്രസ്വ സ്ഥലത്ത് ചെയ്യാൻ ഹീപ് ഉപയോഗിക്കാം